നമുക്ക് FEM പ്രൊസീജ്വർ ന്റെ സംഗ്രഹത്തിലേക്ക് നോക്കാം നമ്മൾ ചെയ്യേണ്ട വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് ഘട്ടം ഒന്ന് എന്തായിരിക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത് കൃത്യത ക്ക് വേണ്ടി നമുക്ക് ഒരു പ്രോബ്ലം അനുമാനിക്കാം ഇതാണ് ഇവിടെ ഉള്ള എന്റെ എയർക്രാഫ്റ്റ് എനിക്ക് ഇതിന്റെ RCS റഡാർ ക്രോസ്സ് സെക്ഷൻ നിർണ്ണയിക്കണം നിങ്ങൾക്ക് ഇവിടെ ചില ഇൻസിഡന്റ് റഡാർ ഫീൽഡ്തന്നിട്ടുണ്ട് എന്തായിരിക്കും ഒന്നാമത്തെ ഘട്ടം നിങ്ങൾക്ക് ഈ പ്രോബ്ലം തന്നിരിക്കുന്നുഞാൻ എങ്ങനെ ആണ് ഈ പ്രോബ്ലം പരിഹരിക്കാൻ തുടങ്ങേണ്ടത് വിദ്യാർത്ഥി ഇൻഫർമേഷൻ ഇക്വേഷന് ഉള്ള ടോട്ടൽ ഫീൽഡ് നമുക്ക് ആദ്യം അടിസ്ഥാനപരമായി നോക്കാം വിദ്യാർത്ഥി ത്രികോണങ്ങൾ ആയി വിഭജിക്കണം ത്രികോണങ്ങളായി വിഭജിക്കാൻ ഞാൻ എന്ത് ടൂൾ ആണ് ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ ഞാൻ ഒരു മെഷ് ഫയൽ സൃഷ്ടിക്കണം അതാണ് CAD സോഫ്റ്റ്വെയർ ഓട്ടോ CAD എന്നത് ഓപ്പൺ സോഴ്സ് ൽ പ്രധാനപ്പെട്ടതാണ് ജിമെഷ് അവിടുത്തെ പ്രധാന സോഫ്റ്റ്വെയർ ആണ് അതിനാൽ ഇത് ചെയ്യാൻ പല വഴികൾ ഉണ്ട് മെഷ് ഫയൽ സൃഷ്ടിച്ചു സൂക്ഷിച്ചു വെക്കുക സങ്കീർണമായ ഒബ്ജെക്റ്റുകൾക്ക് ഇത് വലിയ ദൌത്യത്തിന് വേണ്ടിയാണ് MIG 21 അഥവാ ഇതിന്റെ റിയലിസ്റ്റിക് 3D മോഡൽ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് തന്നെന്നു വിചാരിക്കുക എന്നിട്ട് നിങ്ങൾ അതിൽ ഒടിവ് ഉണ്ടാക്കണം യഥാർത്ഥ ജീവിതത്തിലെ ഒബ്ജക്റ്റ്സിൽ ചെറിയ ചെറിയ സാധനങ്ങൾ അവിടെയും ഇവിടെയും ഉണ്ടാവും അതൊന്നും മെഷ് ചെയ്യേണ്ട ആവശ്യം ഇല്ല നിങ്ങൾ അതിനെ മിനുസപ്പെടുത്തണം മെഷിങ് എന്നത് ഒരു തരത്തിലും നിസ്സാരമല്ല CAD സോഫ്റ്റ്വെയർ സാദാരണ വളരെ സങ്കീർണ്ണം ആണ് നിങ്ങൾക്ക് അറിയാംചില സങ്കീർണ്ണമായ ഇലക്ട്രിക് സർക്യൂട്ടിൽ ഒരു പക്ഷെ റെസിസ്റ്റർ നെ വിവേചിച്ചറിയാൻ നിങ്ങൾ ആഗ്രഹിക്കില്ല ഇത് ഒരു സങ്കീർണ്ണമായ ഘട്ടം ആണ് എന്തായിരിക്കും രണ്ടാമത്തെ ഘട്ടം ഒരുതവണ ഞാൻ മെഷ് ഫയൽ ഉണ്ടാക്കിയാൽ ഞാൻ എന്റെ കോഡ് എഴുതാൻ തുടങ്ങും ഈ മെഷ് ഫയലിൽ എന്താണ് എനിക്ക് താല്പര്യം എന്താണ് ഞാൻ നോക്കുന്നത് വിദ്യാർത്ഥി ബൌണ്ടറികൾ ബൌണ്ടറികൾ മാത്രമല്ല ത്രികോണങ്ങളുടെ സ്ഥാനം ആ ത്രികോണങ്ങളുടെ നോട്ഡുകൾ എന്നിവ അതാണ് എന്റെ താല്പര്യം കാരണം മുമ്പത്തെതിൽ നമ്മൾ ചെയ്തത് പോലെ അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മാട്രിക്സ് നിർണ്ണായിക്കാൻ സാധിക്കും ഇത് നിസ്സാരം ആണെന്ന് തോന്നും പക്ഷെ ഇത് പ്രധാന ഘട്ടം ആണ് മെഷ് ഫയലിൽ റീഡ് ചെയ്യണംകമ്പ്യൂട്ടേഷണൽ EM എഞ്ചിനീയർ എന്ന നിലയിൽ ഈ മെഷ് ഫയൽ റീഡ് ചെയ്യാൻ നിങ്ങൾ ഈ റാപ്പർ എഴുതണം കാരണം അത് ഏതെങ്കിലും ഫോർമാറ്റിൽ ആയിരിക്കും സാദാരണ CAD സോഫ്റ്റ്വെയർ നിങ്ങൾ ഇവിടെ അതിന്റെ കംപ്യൂട്ടേഷണൽ ഉപയോഗിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക ഇല്ല അത്കൊണ്ട് നിങ്ങൾ റാപ്പർ എഴുതണം അത് ഡാറ്റാ യിൽ ശരിയായി റീഡ് ചെയ്യും ഇവയെല്ലാം നിങ്ങൾ റീഡ് ചെയ്തത് നിസ്സാരമല്ല അടുത്തതായി നിങ്ങൾ എന്ത് ചെയ്യും അതായത് ഒരിക്കൽ ഞാൻ ഇവ റീഡ് ചെയ്താൽ ഇനി എന്താണ് ചെയ്യുക കപ്ലിങ് കോഎഫിഷിയന്റ്സ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ എലമെന്റ്സ് നെ സൂക്ഷിച്ചു വെക്കാൻ കാര്യക്ഷമമായ ഡാറ്റാ ഘടന സൃഷ്ടിക്കേണ്ടതുണ്ട് അത് ചെയ്യുകയാണ് വിദ്യാർത്ഥി മാപ്പിങ് സൂക്ഷിച്ചുവെക്കുക ഇതിൽ ഗ്ലോബൽ മുതൽ ലോക്കൽ മാപ്പിങ് വരെ ഉള്ള എലമെന്റ്സ് ന്റെ ലിസ്റ്റ് ഉണ്ട് രണ്ട് നോഡുകൾ എഡ്ജസ് ഇതൊക്കെ നിങ്ങൾ സൃഷ്ടിക്കണം മുമ്പത്തെ ഉദാഹരണത്തിലെ പോലെ ഒരിക്കൽ നിങ്ങൾക്ക് ഒരു ത്രികോണം നൽകിയാൽ അതിലെ നോഡുകൾ ഏതൊക്കെ ആണെന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട് ഏതൊക്കെ നോഡ്സ് ഉണ്ടെന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന എലമെന്റ് നമ്പറിലേക്ക് ആക്സസ്സ് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ ഒരു ഡാറ്റാ ഘടന സൃഷ്ടിക്കണം ഈ മൂന്ന് ഘട്ടങ്ങൾ ആണ് പ്രീപ്രോസസ്സിംഗ് വിഭാഗത്തിൽ വരുന്നത് ഇപ്പോൾ നിങ്ങളുടെ എല്ലാ ഡാറ്റകളും നിങ്ങളുടെ പ്രോഗ്രാമിൽ ഉണ്ട് ഇനി നമുക്ക് അതിൽ പ്രവർത്തിക്കാൻ തുടങ്ങാം എന്താണ് അടുത്ത ഘട്ടം നമ്മൾ മുമ്പത്തെ സ്ലൈഡിൽ എന്താണ് ചർച്ച ചെയ്തത് മാട്രിക്സ് എലമെന്റ്സ് നിർണ്ണയിക്കുന്നതിനെ കുറിച്ചാണ് ഇതിനെ മാട്രിക്സ് അസ്സെമ്ബ്ലി എന്ന് പറയുന്നു അതായത് Axb രൂപപ്പെടുന്നു ഇനി ഇത് സോൾവ് ചെയ്യണം എന്തൊക്കെ തരത്തിലുള്ള സങ്കീർണ്ണതകൾ ഇവിടെ ഉണ്ടാവാം ഇത് ശരിക്കും ന്യൂമറിക്കൽ ലീനിയർ അൽജിബ്രാ യിലെ ഒരു പ്രത്യേക കോഴ്സിനു വേണ്ടി ഉള്ളതാണ് അത് കൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് മെത്തോഡുകൾ ചെയ്യാൻ കഴിയും നിങ്ങൾ ഇതുവരെ കണ്ട ഡയറക്റ്റ് മെത്തേഡുകൾ എന്തൊക്കെയാണ് ഗൌസ്സിയൻ എലിമിനേഷൻ LU ഡികംപോസിഷൻഎന്നീ കാര്യങ്ങൾ പക്ഷെ പ്രോബ്ലത്തിന്റെ വലുപ്പം കൂടി കൂടി വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇത് തുടരാൻ കഴിയില്ല വാസ്തവത്തിൽ മാട്രിക്സ് വ്യക്തമായി സൂക്ഷിച്ചു വെക്കാൻ പോലും സാധ്യമല്ല എങ്കിൽ എന്താണ് ഡയറക്റ്റ് സമീപനത്തിനുള്ള മറ്റൊരു വഴി ഇറ്ററേറ്റീവ് മെത്തോഡുകൾ താരതമ്യേനെ നിങ്ങളുടെ പ്രോബ്ലം 3 ഡൈമെൻഷണൽ പ്രോബ്ലം ആകുമ്പോൾ LU ഡികമ്പോസിഷൻ ചെയ്യുന്നത് വളരെ മടുപ്പ് ഉണ്ടാക്കുന്നതാണ് അതിനാൽ നിങ്ങൾക്ക് ഇറ്ററേറ്റീവ് മെത്തോഡ്സ് ലേക്ക് മാറേണ്ടതുണ്ട് പ്രധാനപ്പെട്ട ഇറ്ററേറ്റീവ് മെത്തോഡുകൾക്കുള്ള എന്തെങ്കിലും ഉദാഹരണം അറിയാമോ വിദ്യാർത്ഥി ന്യൂട്ടൺ ന്യൂട്ടൺ അല്ല കോഞ്ചുഗേറ്റ് ഗ്രാഡിയന്റ് conjugate gradient സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുള്ള ഒരു വഴിയാണ് കോഞ്ചുഗേറ്റ് ഗ്രാഡിയന്റ് മെത്തോഡ് ഒരു പാട് മെത്തോഡുകൾ ഉണ്ട് ഇത് എലമെന്റ്സ് നെ ആശ്രയിച്ചുള്ള വ്യത്യസ്ത മെത്തോഡുകൾ ഉള്ള ഒരു മുഴുവൻ കോഴ്സ് ആണ് ഇതിനെയാണ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് എന്താണ് അടുത്ത ഘട്ടം x കണ്ട് പിടിച്ചുഇപ്പോൾ കാൽക്യൂലേറ്റ് ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഇന്റെറെസ്റ്റ് ആണ് ഈ കേസിൽ അത് RCS ആയിരിക്കും RCS നായി എനിക്ക് ഒബ്ജെക്റ്റ് ന് ചുറ്റും ഒരു തരം കോണ്ടർ ആവശ്യം ഉണ്ട്എന്നിട്ട് ഞാൻ x നിർണ്ണയിച്ച മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി ഹ്യൂജെൻസ് പ്രിൻസിപിൾ പ്രയോഗിക്കും അങ്ങനെ ക്വാണ്ടിറ്റി ഓഫ് ഇന്റെറെസ്റ്റ് കണ്ട് പിടിക്കും നിങ്ങൾ ഇവിടെ ഒരു സർക്യൂട്ട് സിമുലേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കാൽക്യൂലേറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് കൊണ്ടാണ് ഇമ്പിഡൻസ് പോലുള്ള കാര്യങ്ങൾ കാൽക്യൂലേറ്റ് ചെയ്യുന്നത് ഇനി മറ്റൊരു ഓപ്ഷണൽ കാര്യം ആണ്അത് വളരെ ശക്തമാണ് ഇത് ഔട്ട്പുട്ട് ദൃശ്യവൽക്കരിക്കുന്നു ഞാൻ ഔട്ട്പുട്ട് ദൃശ്യവൽക്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ കണക്കാക്കിയ x ന്റെ മൂല്യം ദൃശ്യവൽക്കരിക്കുക 2D യിലും3D യിലും ഇത് മെഷിൽ ദൃശ്യവൽക്കരിക്കുക അത് നിങ്ങളുടെ പ്രോബ്ലംശരിയായി സോൾവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ധാരാളം അവബോധം നൽകുന്നു ഇത് ചെയ്യാൻ ഓപ്പൺ സോഴ്സ്ൽ നല്ല സോഫ്റ്റ്വെയർ ഉണ്ട് ഇതിനെയാണ് പോസ്റ്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞോ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ടാസ്ക് ഉണ്ടെന്ന് സങ്കൽപ്പിക്കുകRCS അഥവാ ഏതെങ്കിലും ഒബ്ജെക്റ്റ് കാൽക്യൂലേറ്റ് ചെയ്യാൻ നൽകിയിരിക്കുന്നു നിങ്ങൾ step തുടങ്ങും1234567 എന്നിട്ട് നിങ്ങൾ വിജയം പ്രഖ്യാപിക്കും ഇത് ആവാം ഇത് ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം വിദ്യാർത്ഥി RCS പരിശോധിക്കണം നിങ്ങൾക്ക് ശരിയായ RCS അറിയില്ലെങ്കിൽ വിദ്യാർത്ഥി എക്സ്പെരിമെന്റ് തരും നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് ഉണ്ടെന്ന് അനുമാനിക്കുന്നു വിദ്യാർത്ഥി ഞാൻ ന്യൂമറിക്കൽ കൺവർജൻസ് ചെയ്യാം അതെന്തായാലും നിങ്ങൾ ചെയ്യണം പക്ഷെ നിങ്ങൾ തെറ്റായ ഉത്തരത്തിലേക്ക് ന്യൂമറിക്കലി കൺവേർജ് ചെയ്തതായിരിക്കാം അതായത് നിങ്ങൾ കൺസിസ്റ്റന്റ് സെറ്റ് ഓഫ് ഇക്വേഷൻസ് കോഡ് ചെയ്തു അത് തെറ്റാണ്നിങ്ങൾ ടെർമ് മൊത്തത്തിൽ മറന്നത് പോലെ ഇത് നിങ്ങൾക്ക് ന്യൂമറിക്കൽ കൺവർജൻസ് തരും പക്ഷെ മാക്സ്വെൽസ് ഇക്വേഷന് maxwells equation പകരം നിങ്ങൾ ലാപ്ലേസ് ഇക്വേഷനാണ് സോൾവ് ചെയ്തത് ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുംഏത് കംപ്യൂട്ടേഷണിലെയും നിർണ്ണായകമായ ഘട്ടം ആണ് വിദ്യാർത്ഥി ഞാൻ ഒരു റോൾ സൃഷ്ടിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നോൺ സൊല്യൂഷന്എതിരായി നിങ്ങളുടെ കോഡ് സാദൂകരിക്കുക ഇത് വളരെ പ്രധാനം ആണ് നോൺ സൊല്യൂഷൻസ് ന്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് അടിസ്ഥാനപരമായി നമുക്ക് വേണ്ടത് EM പ്രോബ്ലം ആണ് അതിന്റെ സൊല്യൂഷൻ എനിക്ക് അറിയാം എന്നിട്ട് ഞാൻ കോഡ് അപ്പ് ചെയ്ത് സിമുലേറ്റ് ചെയ്ത് എനിക്ക് നോൺ ആൻസർ കിട്ടണം അനലിട്ടിക് ആയി ഉത്തരം എവിടെയാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ലളിതമായ EM പ്രോബ്ലം എന്താണ് വിദ്യാർത്ഥി ക്യൂബ് നേക്കാളും സ്ഫിയർ നേക്കാളും ലളിതമായ ഒന്ന് എന്താണ് പ്രോബ്ലം910 വിദ്യാർത്ഥികൾക്ക് പോലും ഉത്തരം അറിയുന്നത് വിദ്യാർത്ഥി ഫ്രീ സ്പേസിൽകൂടിയുള്ള വേവ് പക്ഷെ അവിടെ ഒരു കാൽക്യൂലേഷൻ ഉൾപ്പെടുന്നില്ല ഒരു ഗ്ലാസ് ന്റെ സ്ലാബ് ഉണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റും എന്താണ് റിഫ്ലക്ഷൻ കോഎഫിഷിയന്റ് എന്താണ് ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ് റീഫ്രാക്റ്റീവ് ഇന്റെക്സ് ന് വിധേയമായി ഒരു ഫോർമുല ഉണ്ട് ഇത് എത്ര ഡൈമെൻഷണൽ പ്രോബ്ലം ആണ് നിങ്ങൾക്കിത് 1 ഡൈമെൻഷണൽ പ്രോബ്ലം ആക്കാം ഞാൻ ഒരു ID കോഡ് എഴുതുകയായിരുന്നെങ്കിൽ നോർമൽ റിഫ്ലക്ഷനുംട്രാൻസ്മിഷനും എനിക്ക് നിർണ്ണായിക്കാമായിരുന്നു റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം അതെ ഉത്തരം എനിക്ക് അവിടുന്ന് കിട്ടും നോൺ നോർമലിൽഎനിക്ക് 2D ഇൻസിഡന്റ് ഉണ്ടാക്കാൻ സാധിക്കും ഫ്രസ്ണെൽ റിഫ്ലക്ഷൻ കോഎഫിഷിയന്റ്സ് എന്നത് നിങ്ങളുടെ കോഡ് ശരി ഉത്തരം ആണോ തരുന്നത് എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു വഴിയാണ് നിങ്ങൾക്ക് മറ്റേതെങ്കിലും സൊല്യൂഷൻ ചിന്തിക്കാമോ ഇലക്ട്രോമാഗ്നെറ്റിക്സി ൽ നോൺ അനലിടിക്കൽ സൊല്യൂഷൻ ഉള്ള വളരെ കുറച്ചു പ്രോബ്ലെംസ് മാത്രമേ ഉള്ളൂ ഫ്രസ്ണെൽ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ് ആണ് ഒന്ന് സ്കാറ്ററിങ് ഫ്രം ഇൻഫിനിറ്റ് സിലിണ്ടർ പെർഫെക്ട് സ്ഫിയർഎന്നിവയാണ് മറ്റുള്ളവ ഇവയെ Mie സീരീസ് സൊല്യൂഷൻസ് എന്ന് പറയുന്നു ഇവക്ക് നോൺ അനലിറ്റിക്കൽ സൊല്യൂഷൻസ് ഉണ്ട് അവ കാണാൻ വികൃതമാണ് കാരണം ഇവ ബെസ്സൽ ഫങ്ക്ഷൻ നും ഹാങ്കെൽ ഫങ്ക്ഷനും ന്റെയും വിധേയമാണ് പക്ഷെ നിങ്ങൾക്ക് ഇത് കോഡ് ചെയ്ത് നിങ്ങളുടെ ഉത്തരം ഈ അനലിറ്റിക്കൽ ഉത്തരത്തോട് സൂപ്പർപോസ് ചെയ്യാൻ കഴിയും നിങ്ങളുടെ കോഡ് ശരിയാണോ എന്ന് ഇതിൽ നിന്നും അറിയാം ഇനി നിങ്ങൾക്ക് ആ ഒബ്ജെക്റ്റ് നിങ്ങളുടെ ഒബ്ജക്റ്റ് ഉപയോഗിച്ചു മാറ്റി സ്ഥാപിക്കാൻ സാധിക്കും എക്സ്പെരിമെന്റൽ ഡാറ്റക്ക് എതിരെ സധൂകരിക്കുന്നതിന്റെ ആഡംബരം എപ്പോഴും ഉണ്ടായിരിക്കണം എന്നില്ല നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നല്ലത് പക്ഷെ നിങ്ങളുടെ എക്സ്പിരി മെന്റൽ കോൺഫിഗറേഷനിൽ കണക്കില്ലാത്ത തെറ്റുകൾ ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് ഉണ്ടാവണം സാധാരണയായി നിങ്ങൾ ആദ്യം ഏതെങ്കിലും നോൺ ഒബ്ജക്റ്റിന് എതിരെ സാധൂകരിക്കും എന്നിട്ട് അത് ഉപയോഗിച്ചു നിങ്ങളുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് റിഫൈൻ ചെയ്യണം FEM ൽ ഒരു പാട് കോഡിങ് ഡീറ്റെയിൽസ് ഉണ്ട് പ്രത്യേകിച്ചും പ്രീ പ്രോസസ്സിംഗ് ഘട്ടത്തിൽ ഇത് ശരിയായി ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കോഡ് കാര്യക്ഷമമല്ലാത്തത് ആവും ഈ ഡാറ്റാ ഘടനകൾ ഉണ്ടാക്കുന്നതിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ് ഉപയോഗിക്കണം അങ്ങനെ നമ്മൾ FEM അവസാനിപ്പിക്കുകയാണ് 3D FEM ലേക്ക് നമ്മൾ പോവുന്നില്ല പക്ഷെ ആശയം ഒന്ന് തന്നെ ആണ് ഷേപ്പ് ഫങ്ക്ഷൻസ് വീക് ഫോം മാട്രിക്സ് അസ്സമ്ബ്ലി കാൽക്യൂലാറ്റിങ് ദി ക്വാണ്ടിറ്റി ഓഫ് ഇന്റെറെസ്റ്റിംഗ് അങ്ങനെ